ഹലോ സുരക്ഷിത സിസ്റ്റം എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ രണ്ട് പ്രഭാഷണങ്ങളിൽ ഒരു ബഫർ ഓവർഫ്ലോ ദുർബലത ഉപയോഗപ്പെടുത്തി ആക്രമണകാരിക്ക് എങ്ങനെ പ്രോസസ്സ് സ്റ്റാക്കിൽ കോഡ് ഇഞ്ചക്ട് ചെയ്യാമെന്നും സെറ്റ് ചെയ്യാം എന്നും ആ നിർദ്ദിഷ്ട കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും നമ്മൾ കണ്ടു പിന്നീട് ഈ പ്രത്യേക അപകടസാധ്യതയ്ക്കായി രണ്ട് വ്യത്യസ്ത പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ കണ്ടു ആദ്യത്തേത് Canacries ബഫർ ഓവർഫ്ലോ defense mechanism രണ്ടാമത്തേത് NX ബിറ്റ് NX ബിറ്റ് പ്രോസസ്സറുകൾ support ചെയ്യുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടതുപോലെ NX ബിറ്റ് സ്റ്റാക്കിൽ നിന്ന് code എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്രാപ്തമാക്കും എന്നിരുന്നാലും സുരക്ഷ എല്ലായ്പ്പോഴും ഒരു പൂച്ചയും എലിയുമാണ് ആക്രമണകാരികൾ ഒരു ചൂഷണം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തുകയും തുടർന്ന് പ്രതിരോധക്കാർ അവരുടെ സിസ്റ്റത്തിൽ പ്രത്യേക ചൂഷണം നടത്തുന്നത് തടയാൻ ഒരു മാർഗം കണ്ടെത്തുകയും ചെയ്യും ഇപ്പോൾ ആക്രമണകാരികൾ വീണ്ടും ഈ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ഒരു ആക്രമണം നടത്തും അതിനാൽ ഈ രീതിയൽ ആക്രമണകാരികളും പ്രതിരോധക്കാരും തമ്മിൽ നിരന്തരമായ ഒരു ചക്രം ഉണ്ട് അതിന്റെ ഫലമായി ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാവുകയും അതുവഴി ഈ ആക്രമണങ്ങൾ തടയുന്നതിന് മികച്ച പ്രതിരോധ തന്ത്രങ്ങൾ ആവശ്യമാണ് ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ നോക്കുന്നത് Return Libc Attack എന്നറിയപ്പെടുന്ന ഒരു പുതിയ ആക്രമണമാണ് ഈ പ്രത്യേക ആക്രമണം സ്റ്റാക്കിലെ ബഫർ ഓവർഫ്ലോ ദുർബലതയെയും ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ കണ്ട മുമ്പത്തെ ചൂഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റാക്കിൽ നിന്ന് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് ഈ പ്രത്യേക ആക്രമണത്തിൽ നമ്മൾ സ്റ്റാക്ക് രൂപീകരിക്കുന്ന ഒരു കോഡും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഈ രീതിയൽ NX ബിറ്റ് പ്രതിരോധം ഉള്ള പ്രത്യേക സ്റ്റാക്കിലും ആക്രമണം ഉണ്ടാവും അതിനാൽ ഈ ആക്രമണം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് നോക്കാം Libc എന്താണെന്ന് മനസിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം users എഴുതിയ എല്ലാ C പ്രോഗ്രാമുകളിലേക്കും dynamic ആയി അറ്റാച്ചുചെയ്യപ്പെടുന്ന ലൈബ്രറിയാണ് Libc നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ സ്റ്റാൻഡേർഡ് C functionsൻറെ implementations Libc ഉൾക്കൊള്ളുന്നു ഉദാഹരണത്തിന് strcpy printf scanf fopen fclose strcat തുടങ്ങിയവയെല്ലാം Libcയിൽ ഉണ്ട് ആയിരത്തിലധികം ഫംഗ്ഷനുകൾ ലിബ്സിയിൽ implement ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പത്തെ കുറച്ച് പ്രഭാഷണങ്ങളിൽ എഴുതിയ ലളിതമായ Hello World പ്രോഗ്രാം പോലും printf സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച "hello world" അച്ചടിക്കുന്നു ഈ പ്രോഗ്രാമിന് പോലും അതിന്റെ വിർച്വൽ വിലാസ സ്ഥലത്ത് Libc ഉണ്ട് ഉദാഹരണത്തിന് Hello World പ്രോഗ്രാമിനായി വെർച്വൽ മെമ്മറി മാപ്പ് പ്രദർശിപ്പിക്കുന്ന ഈ പ്രത്യേക സ്ലൈഡ് നോക്കുകയാണെങ്കിൽ Lbcക്കുമായി മൂന്ന് എൻട്രികൾ ഉണ്ടെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ഈ മൂന്ന് എൻട്രികളും മുഴുവൻ Libcയുമായി യോജിക്കുന്നു ഇപ്പോൾ Libcയിൽ ആയിരത്തിലധികം വ്യത്യസ്ത ഫംഗ്ഷനുകൾ ഉണ്ട് ഈ ഫംഗ്ഷനുകളെല്ലാം ഈ വെർച്വൽ വിലാസ മാപ്പിൽ ഉണ്ട് മാത്രമല്ല ഇവിടെയുള്ള ഈ വിലാസങ്ങളിൽ ഏതെങ്കിലും ആക്സസ് ചെയ്യാൻ കഴിയും അതിനാൽ Libc എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ റിട്ടേൺ ടു ലിബ് ആക്രമണം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മുമ്പത്തെ ആക്രമണം പോലെ ആക്രമണകാരി ഒരു ബഫറിനെ Overflow ചെയ്യുകയും സ്റ്റാക്കിലെ പ്രത്യേക ബഫറിന്റെ ആരംഭ സ്ഥാനത്തേക്ക് മടക്ക വിലാസം നൽകുകയും ചെയ്യുന്നു സമാനമായ രീതിയൽ റിട്ടേൺ ടു ലിബ് ആക്രമണം ബഫറിനെ Overflow ചെയ്യുകയും തുടർന്ന് മടക്ക വിലാസം മറ്റേതെങ്കിലും അനിയന്ത്രിതമായ വിലാസം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഈ അനിയന്ത്രിതമായ വിലാസം ഇപ്പോൾ ഒരു Libcയിലെ ചില പ്രത്യേക ഫംഗ്ഷനുകളിലേക്ക് point ചെയ്യുന്നു നമുക്കറിയാവുന്നതുപോലെ Libc ഒരു process ൻറെ segmentൻറെ ഭാഗമായതിനാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുവാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ Libcയിലെ ഫംഗ്ഷനുകൾക്കായി NX ബിറ്റ് സെറ്റ് ചെയ്തിട്ടില്ല അതിനാൽ ഇവിടെ സംഭവിക്കുന്നത് ഫംഗ്ഷൻ F1 Libcയിലെ ഒരു വാലിഡ് ഫംഗ്ഷനാണെന്ന് അനുമാനിക്കുന്നു റിട്ടേൺ അഡ്രസ്സ് പകരം സ്റ്റാക്കിലുള്ള സാധുവായ റിട്ടേൺ വിലാസം F1 നുള്ള അഡ്രസ്സ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതുവരെ നമ്മൾ ബഫറിനെ Overflow ചെയ്യുകയാണ് ഇത് പ്രത്യേക പ്രോസസിന്റെ കോഡ് വിഭാഗത്തിൽ ഉണ്ട് അതിനാൽ ഈ രീതിയൽ NX ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും എക്സിക്യൂഷൻ അട്ടിമറിക്കാൻ നമുക്ക് കഴിയും LIbcയിൽ നിലവിലുള്ള ചില അനിയന്ത്രിതമായ ഫംഗ്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയും അതിനാൽ അടുത്ത ചോദ്യം ഈ ഫംഗ്ഷൻ F1 എന്തായിരിക്കണം എന്നതാണ് അതിനാൽ സാധ്യമായ ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ട് അതിനാൽ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുന്ന ഒരു ഓപ്ഷൻ system function എന്നറിയപ്പെടുന്നു അതിനാൽ F1നായി നമ്മൾ നോക്കുന്ന ഒരു ഫംഗ്ഷൻ സിസ്റ്റം ആണ് ഇത് Libcയിൽ ഉള്ള ഒരു ഫംഗ്ഷനാണ് ഇത് സ്ട്രിംഗ് ഇൻപുട്ടായി എടുക്കുന്നില്ല പകരം ഇത് ഒരു string pointer ഇൻപുട്ടായി എടുക്കുന്നു ഈ സ്ട്രിംഗിൽ എക്സിക്യൂട്ടബിൾ അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ " binbash" എന്ന സ്ട്രിംഗ് നമ്മൾ system functionന് പാസ് ചെയ്യുന്നു അപ്പോൾ ഒരു bash shell സൃഷ്ടിക്കപ്പെടും മുമ്പത്തെപ്പോലെ ഒരു ഷെൽ സൃഷ്ടിക്കുന്ന ഒരു പേലോഡ് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിനർത്ഥം സിസ്റ്റം പോലുള്ള ഒരു ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ അട്ടിമറിക്കുകയും സിസ്റ്റത്തിലേക്കുള്ള പാരാമീറ്ററായി "binbash" പാസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണെന്ന് ഇതിനർത്ഥം സിസ്റ്റത്തിനായുള്ള വിലാസം F1 വിലാസമായി Specify ചെയ്യേണ്ടതുണ്ട് കൂടാതെ സിസ്റ്റത്തിന്റെ പ്രത്യേക വിലാസം ഉപയോഗിച്ച് ബഫറിനെ ഓവർ ഫ്ലോ ചെയ്യുകയും വേണം രണ്ടാമതായി ഈ "binbash" എന്ന പ്രത്യേക സ്ട്രിംഗിലേക്ക് ഒരു പോയിന്റർ കൈമാറാൻ നമുക്ക് കഴിയണം അങ്ങനെ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നു കൂടാതെ " bin bash" എന്ന ഒരു ആർഗ്യുമെൻറ് access ചെയ്യാനും കഴിയും Return to Libc attack mount ചെയ്യുന്നത് ഇപ്രകാരം സംഗ്രഹിക്കാം നിങ്ങളുടെ Libcലെ സിസ്റ്റം ഫംഗ്ഷന്റെ വിലാസം കണ്ടെത്തേണ്ടതുണ്ട് രണ്ടാമതായി ഈ പ്രത്യേക അഡ്രസ്സിൽ ബഫറിനെ ഓവർ ഫ്ലോ ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് സ്റ്റാക്കിൽ സ്ഥിതി ചെയ്യുന്ന റിട്ടേൺ അഡ്രസ്സ് മാറ്റി പകരം system functionന്റെ അഡ്രസ് store ചെയ്യണം തുടർന്ന് "binbash" എന്ന സ്ട്രിംഗിലേക്കുള്ള pointer system function ലേക്ക് നമ്മൾ ആർഗ്യുമെന്റ് ആയി കൈ മാറേണ്ടതുണ്ട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് പ്രധാനമായും വേണ്ടത് ഇതു പോലെയുള്ള ലേഔട്ട് ആണ് റിട്ടേൺ അഡ്രസ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു രണ്ടാമതായി സ്റ്റാക്കിൽ 4 ബൈറ്റുകൾ കൂടുതലുള്ള ഒരു ഓഫ്സെറ്റിൽ നമുക്ക് ഒരു ക്യാരക്ടർ പോയിന്റർ ഉണ്ട് അത് വെർച്വൽ സ്പേസിൽ "binbash" സ്ട്രിംഗ് ഉള്ള സ്ഥലങ്ങളിലേക്ക് point ചെയ്യുന്നു ഫംഗ്ഷൻ എക്സിക്യൂഷൻ പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ മടക്ക വിലാസം സ്റ്റാക്കിൽ നിന്ന് എടുക്കും ഈ സാഹചര്യത്തിൽ റിട്ടേൺ വിലാസം system functionന്റെ അഡ്രസ് ആകുന്നു എക്സിക്യൂഷൻ Libcയിലുള്ള സിസ്റ്റം ഫംഗ്ഷനിലാണ് കൂടാതെ ഈ പ്രത്യേക ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് "bin bash" ലേക്ക് സൂചിപ്പിക്കുന്ന ഈ ക്യാരക്ടർ പോയിന്റാണ് Libcയിലെ ഈ സിസ്റ്റം ഫംഗ്ഷൻ "binbash" എക്സിക്യൂട്ട് ചെയ്യും അടുത്തതായി നമ്മൾ നിർണ്ണയിക്കേണ്ടത് സിസ്റ്റത്തിന്റെ അഡ്രസ്സും ഈ പ്രത്യേക pointer എന്താണ് എന്നുമാണ് അതിനാൽ സിസ്റ്റം ഫംഗ്ഷൻ വിർച്വൽ അഡ്രസ്സ് സ്പേസിൽ എവിടെയാണെന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് GDB അല്ലെങ്കിൽ OBJDUMP പോലുള്ള മറ്റേതെങ്കിലും tool ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും GDB q എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് റൺ ചെയ്യുകയും mainൽ ഒരു ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യുകയും യും വേണം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് പോയിൻറ്ൽ എത്തുമ്പോൾ p system പ്രിന്റ് സിസ്റ്റം എന്ന് അർത്ഥമാക്കുന്ന കമാൻഡ് ഉപയോഗിക്കുന്നു പ്രിൻറ് ചെയ്ത Value 0x28085260 ആണ് എന്ന് കാണാം ഇത് സിസ്റ്റം ഫംഗ്ഷൻ അഡ്രസ്സ് ആണ് ഇതുപോലെ " bin bash" എന്ന സ്ട്രിംഗ്എക്സിക്യൂട്ടബിൾ ഫയലിൽ ഏത് അഡ്രസിൽ ആണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനായി ഈ ഉദാഹരണത്തിൽ ഉള്ള പ്രോസസിന്റെ നിലവിലുള്ള എൻവിറോൺമെൻറ് വേരിയബിളുകൾ നമ്മൾ പരിഗണിക്കുന്നു ഇവിടെ കാണുന്നതു പോലെ ഈ എൻവിറോൺമെൻറ് വേരിയബിളുകളിൽ "binbash" എന്ന സ്ട്രിംഗ് ഉണ്ട് ഇപ്പോൾ നമ്മൾ GDB ഉപയോഗിച്ചു കൊണ്ട് "binbash" ഉള്ള അഡ്രസ്സ് നിർണ്ണയിക്കുന്നു സിസ്റ്റം ഫംഗ്ഷൻ അഡ്രസ്സ് എവിടെയാണെന്ന് നാം തിരിച്ചറിഞ്ഞു കൂടാതെ എക്സിക്യൂട്ടബിളിൽ "binbash" അടങ്ങിയിരിക്കുന്ന സ്ട്രിംഗിന്റെ അഡ്രസ്സ് എന്നിവയും നാം കണ്ടെത്തി ഇനി നമുക്ക് ഇക്കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങിനെ എക്സ്പ്ലോയിറ്റ് നിർമ്മിക്കാമെന്ന് നോക്കാം നാം ബഫറിനെ ഓവർ ഫ്ലോ ചെയ്തു റിട്ടേൺ അഡ്രസ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 0x28085260 എന്നാ അഡ്രസ് ഉപയോഗിച്ച് ച്ച റീപ്ലേസ് ചെയ്യുന്നു ഇത് പ്രധാനമായും Libc ലെ സിസ്റ്റം ഫംഗ്ഷന്റെ അഡ്രസ്സും 4 ബൈറ്റുകളുടെ സ്റ്റാക്കിലെ ഓഫ് സെറ്റും ആണ് 0xbffbffe25 എന്ന അഡ്രസ്സ് "binbash" എന്ന സ്ട്രിംഗിലേക്കുള്ള പോയിന്ററാണ് അതിനാൽ ഈ പ്രത്യേക പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ bash എക്സിക്യൂട്ട് ചെയ്യപ്പെടും ഇപ്പോൾ ഈ പ്രത്യേക പ്രോഗ്രാം ശരിയായി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെ 0x281130d0 എന്നാ അഡ്രസ്സ് ഉള്ള ഒരു exit ഫംഗ്ഷൻ ചേർക്കാൻ സാധിക്കും സിസ്റ്റം ഫംഗ്ഷൻ "binbash" പോയിന്റർ ആർഗ്യുമെൻറായി എടുത്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു ഇത് എടുക്കുന്നു എക്സിക്യൂഷൻ പൂർത്തിയാക്കിയ ശേഷം എക്സിറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും ഈ രീതിയൽ Libcയിൽ നിലവിലുള്ള സിസ്റ്റം ഫംഗ്ഷൻ എക്സിക്യൂഷൻ subvert ചെയ്യാൻ കഴിയും അങ്ങിനെ "binbash" ഷെൽ ആയ ഒരു പേലോഡ് റൺ ചെയ്യുവാനും ഈ പ്രത്യേക പ്രോഗ്രാമിൽ നിന്ന് പുറത്തുകടക്കാനും കഴിയും Return to Libc attackന്റെ ഒരു പ്രധാന നേട്ടം എക്സിക്യൂട്ടബിൾ അല്ലാത്ത സ്റ്റാക്കിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് എന്നിരുന്നാലും ഇതിന് ഒരു പ്രധാന പരിമിതി ഉണ്ട് Libc ഓഫർ ചെയ്യുന്ന ഫംഗ്ഷനുകൾ മാത്രമാണ് ആണ് ഈ അറ്റാക്കിന് വിധേയമാവുക ഉദാഹരണത്തിന് Libcൽ സിസ്റ്റം ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ചർച്ച ചെയ്ത ആക്രമണം പ്രവർത്തിക്കില്ല അതിനാൽ ആക്രമണകാരിക്ക് എന്തുചെയ്യാൻ കഴിയും എന്നതിന് ഒരു പരിധിയുണ്ട് അടുത്ത പ്രഭാഷണത്തിൽ Return Oriented Programming attack എന്നറിയപ്പെടുന്ന മറ്റൊരു ആക്രമണത്തെക്കുറിച്ച് നോക്കാം അതിൽ attack Libc offer ചെയ്യുന്ന ഫംഗ്ഷൻ ഇൽ പരിമിതപ്പെടുത്തിയിട്ടില്ല കൂടാതെ അനിയന്ത്രിതമായ ആയ പാലോട് പേലോഡ് നിർമ്മിക്കുകയും ചെയ്യും നന്ദി